ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ കൺട്രോൾ റോൾ ഓഫ് കംപ്യൂട്ടേഴ്സ് ഇൻ ഓട്ടോമേഷൻ കമ്പ്യൂട്ടർ ന്യൂമെറിക്കൽ കണ്ട്രോൾ ഓഫ് മെഷീൻ ടൂൾസ് ആൻഡ് പ്രോസസ്സ് എന്ന ഓപ്പൺ ഓൺലൈൻ കോഴ്സിലെ 18 ാമത്തെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മൾ കർവ്ഡ് സർഫസ് ജ്യോമെട്രിയെ കുറിച്ച് ചർച്ച ചെയ്തു ഇപ്പോൾ നമ്മൾ കർവ്ഡ് സർഫസ്കൾക്കുള്ള കട്ടർ പാത്ത് ജനറേഷനെക്കുറിച്ച് ചർച്ച ചെയ്യും അതിനാൽ നമുക്ക് വിഷയത്തിലേക്ക് പോകാം അതിനാൽ കട്ടർ പാത നിർമ്മിക്കുന്ന ഫോർവേഡ് സ്റ്റെപ്പുകളും സൈഡ് സ്റ്റെപ്പുകളും നമ്മൾ ആദ്യം ചർച്ച ചെയ്യും നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കർവ്ഡ് പ്രതലത്തിലെ കട്ടർ പാതയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു കൂടാതെ കട്ടർ പാതയെ നേർരേഖയിലുള്ള ഭാഗങ്ങൾ കൊണ്ട് ഏകദേശമാക്കേണ്ടതുണ്ടെന്നും നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇത് ഒരു കർവ് പാതയെ ഏകദേശം കണക്കാക്കാൻ ചെറുതായ ഹ്രസ്വമായ നേരായ ഭാഗങ്ങളിലൂടെ നീങ്ങുന്നു എന്നിരുന്നാലും നമ്മൾ ഈ സെഗ്മെന്റൽ എടുക്കുമ്പോൾ ഈ ലീനിയർ സെഗ്മെന്റൽ ചലനം നടത്തുമ്പോൾ ആ കട്ടർ ഡീവിയേഷൻ ഈ കട്ടർ പാത്ത് ഡിസൈൻ ഉപരിതലത്തിൽ നിന്നുള്ള വ്യതിയാനം അത് ടോളറേറ് ചെയ്യാവുന്ന ഒരു പ്രത്യേക മൂല്യത്തിന് തുല്യമാക്കേണ്ടതുണ്ട് നമ്മൾ വളരെ വലിയ മൂല്യം എടുക്കുകയാണെങ്കിൽ ഉപരിതലം പരുപരുത്തതാവുകയും അതിന്റെ ഉദ്ദേശ്യം നിറവേറ്റാതിരിക്കുകയും ചെയ്യും e വളരെ ചെറുതാണെന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉപരിതലം മിനുസമാർന്നതായി കാണപ്പെടും ഒരുപക്ഷേ അതിന്റെ ആവശ്യമായ പ്രവർത്തനവും തൃപ്തികരമായി നിർവ്വഹിക്കും പക്ഷേ അത് നിർമ്മിക്കുന്നതിന് വളരെയധികം പരിശ്രമിക്കേണ്ടി വന്നേക്കാം അതിനാൽ നമ്മൾ ഒരു ട്രേഡ് ഓഫ് ലക്ഷ്യത്തിലേക്ക് പോകേണ്ടതുണ്ട് കുറഞ്ഞത് എന്താണോ ടോളറേറ്റ് ചെയ്യേണ്ടത് ആ പ്രത്യേക ഡയമെൻഷൻ ഇവിടെ കൈവരിക്കുന്ന തരത്തിൽ പൊതുവെ നമ്മൾ ഈ സെഗ്മെന്റുകളെല്ലാം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ഇത് കട്ടറിന്റെ ഒരു സ്ഥാനമാണ് ഇത് കട്ടറിന്റെ മറ്റൊരു സ്ഥാനമാണ് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങി ഈ നിമിഷം നമ്മൾ എക്സ്റ്റേർണൽ ഗോജിംഗ് അവഗണിക്കുകയാണെങ്കിൽ ഇതാണ് പാത ഇത് മെഷീൻ ഉപരിതലം കാണിക്കുന്നു ഇതാണ് വ്യതിയാനം ഈ 2 പോയിന്റുകളിലെ കർവേച്ചറുകളുടെ 2 ആരങ്ങളാണ് ഇവ നമ്മൾ ഇപ്പോൾ ഇവിടെയാണ് കട്ടർ എത്തുന്ന രണ്ടാമത്തെ പോയിന്റ് എങ്ങനെയെങ്കിലും കണക്കാക്കണം ഇത് സൈഡ്സ്റ്റെപ്പ് കാണിക്കുന്നു സൈഡ്സ്റ്റെപ്പ് എന്നതിനർത്ഥം പേപ്പറിന്റെ തലത്തിലേക്ക് ലംബമായി ഒരു പ്രത്യേക പാത നിർവ്വഹിക്കുമ്പോൾ കട്ടറിന്റെ ആദ്യ സ്ഥാനമാണിത് അത് ഇവിടെ വരുമ്പോൾ അതിന്റെ ഇടയിൽ മറ്റൊരു പാത ആരംഭിക്കാൻ ഒരു സൈഡ് ഷിഫ്റ്റ് ആവശ്യമാണ് ഉയർത്തിയ ത്രികോണാകൃതിയിലുള്ള ഭാഗം പോലെ കാണപ്പെടുന്ന ഈ അൺകട്ട് മെറ്റീരിയലിന് പിന്നിൽ അവശേഷിക്കുന്നു ഇതിനെ സ്കാല്ലപ് എന്ന് വിളിക്കുന്നു ഇത് 2 കട്ടർ പാതകൾക്കിടയിൽ ഉടനീളം തുടരുകയും ഉപരിതലത്തിന്റെ സ്വഭാവഗുണമുള്ള ഒരു സ്വഭാവം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇത് എന്ത് വിലകൊടുത്തും ഒഴിവാക്കണം 2 കട്ടർ പാതകൾക്കിടയിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായിരിക്കേണ്ടതിനാൽ നമുക്ക് 0 റഫ്നെസ് ഉണ്ടായിരിക്കാൻ കഴിയില്ല അതിനാൽ ഇവിടെയും നമ്മൾ ഒരു പ്രത്യേക ടോളറൻസ് മൂല്യം നിർവചിക്കുന്നു അതിനുള്ളിൽ ഈ കട്ടർ ഉപരിതല റഫ്നെസ് ആ ടോളറൻസിനുള്ളിൽ ആയിരിക്കണം ഈ റഫ്നെസ് എല്ലായിടത്തും ഒരുപോലെയായിരിക്കണം മറ്റ് ഉപരിതല റഫ്നെസ്സുമായി ബന്ധപ്പെട്ട ഇഫക്റ്റുകൾ ഉപരിതലത്തിലുടനീളം ഒരേ പോലെയായിരിക്കും ഉദാഹരണത്തിന് ടർബുലൻസ് മുതലായവ അതിനാൽ ഇത് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട റഫ്നെസ്ന്റെ ഉയരം അതിനെ സ്കല്ലോപ്പ് ഉയരം എന്നും ഉപകരണത്തിന്റെ മധ്യരേഖകൾക്കിടയിലുള്ള ദൂരത്തെ ടൂൾ പാത്ത് ഇന്റർവെൽ എന്നും കട്ടർ കോൺടാക്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം സൈഡ് സ്റ്റെപ്പ് എന്നും വിളിക്കുന്നു സൈഡ് സ്റ്റെപ്പ് നിർവചിക്കുന്ന രീതി പരിഗണിക്കുകയാണെങ്കിൽ കട്ടർ പാത്ത് ജനറേഷന് 3 രീതികളുണ്ട് ഇവയെ സൈഡ് സ്റ്റെപ്പ് ഐസോപാരാമെട്രിക് എന്നും ഫോർവേഡ് സ്റ്റെപ്പ് ഐസോപാരാമെട്രിക് ഐസോപ്ലാനർ ഐസോസ്കല്ലോപ്പ് എന്നും വിളിക്കുന്നു അവയുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഐസോപാരാമെട്രിക് രീതിക്ക് കട്ടർ പാതകൾ ഐസോപാരാമെട്രിക് ലൈനുകളായി തിരഞ്ഞെടുത്തിട്ടുണ്ട് കട്ടർ പാത്തുകൾ ഉപരിതലത്തിൽ ഐസോപാരാമെട്രിക് ലൈനുകളാണെങ്കിൽ അവ നിർണ്ണയിക്കാൻ എളുപ്പമാണ് ഈ പ്രക്രിയയെ കമ്പ്യൂട്ടേഷണലി നോൺ ഇന്റൻസീവ് പ്രോബ്ലം എന്ന് വിളിക്കുന്നു ഉപരിതലത്തിലെ കട്ടർ പാതകൾ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ കട്ടർ പാത്ത് ജനറേഷന്റെ ഐസോപാരാമെട്രിക് രീതി അവലംബിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കും ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ എന്തായിരിക്കാം ഉദാഹരണത്തിന് വക്രത്തിന്റെ ആകൃതി ഇതൊരു പ്രത്യേക പ്രതലമാണ് ഈ പ്രതലം മുറിക്കുന്നതിന് നമ്മൾ ഐസോപാരാമെട്രിക് രീതിയിലോ മറ്റേതെങ്കിലും രീതിയിലോ പോകണോ എന്ന് തീരുമാനിക്കണം ചില കാരണങ്ങളാൽ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ കട്ടർ മറുവശത്തേക്ക് കൊണ്ടുപോകണം മറ്റൊരു വഴിയല്ല ഈ വഴിയല്ല അങ്ങനെയാണെങ്കിൽ ആ മുൻ വ്യവസ്ഥയോടെ നമ്മൾ ഇത് കട്ടർ പാത്ത് ജനറേഷന്റെ ഐസോപാരാമെട്രിക് തന്ത്രം അവലംബിക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ഈ കട്ടർ പാതകൾ ഒരു അറ്റത്ത് കൂട്ടം കൂടിയതായിരിക്കുമെന്നും അവ വ്യാപകമായി വ്യതിചലിക്കുമെന്നും നമ്മൾ കണ്ടെത്തും മറുവശത്ത് പ്രത്യക്ഷമായും ഉപരിതലത്തിന്റെ ഈ അറ്റത്ത് ഇതിൽ സൃഷ്ടിക്കുന്ന റഫ്നെസ്സ് ഈ അറ്റത്ത് സൃഷ്ടിക്കുന്ന റഫ്നെസ്സ്നേക്കാൾ വളരെ കുറവായിരിക്കും കാരണം തെളിവുകളില്ലാതെ നമുക്ക് ഈ പ്രസ്താവന എളുപ്പത്തിൽ നിരീക്ഷിച്ചുകൊണ്ട് പറയാൻ കഴിയും സൈഡ്സ്റ്റെപ്പ് കൂടുതലാണ് തത്ഫലമായുണ്ടാകുന്ന സ്കല്ലോപ്പിന്റെ ഉയരവും കൂടുതലായിരിക്കും അതിനാൽ കമ്പ്യൂട്ടേഷണൽ ലോഡ് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ഐസോപാരാമെട്രിക് രീതിയിലേക്ക് പോയാൽ നമുക്ക് ഒരു പ്രശ്നമുണ്ടാകും മാത്രമല്ല പ്രശ്നം ഇതാണ് റഫ്നെസ്സ് തീർച്ചയായും യൂണിഫോം ആയിരിക്കില്ല ഈ എൻഡിൽ അത് ഷൂട്ട് ചെയ്യും അതിനാൽ ഐസോപാരാമെട്രിക് മെഷീനിംഗിന്റെ ഗുണം ഇതാണ് ഐസോപാരാമെട്രിക് മെഷീനിംഗിന്റെ പോരായ്മ ഇതാണ് പ്രത്യേകിച്ച് വിചിത്രമായ ആകൃതിയിലുള്ള ജോലികൾക്ക് ഉപരിതലത്തിന്റെ റഫ്നെസ്സ് ഉപരിതലത്തിലുടനീളം നിയന്ത്രിക്കാൻ കഴിയില്ല തിരികെ വരുമ്പോൾ ഐസോപ്ലാനർ എന്ന മറ്റൊരു രീതി നമുക്കുണ്ട് ഇതിൽ ഒരു കട്ടർ പാതകൾ സമാന്തര ലംബ തലങ്ങളുള്ള ഉപരിതലത്തിന്റെ വിഭജനമായി ലഭിച്ച പാതകളിലൂടെ തിരഞ്ഞെടുക്കുന്നു അതിനാൽ എനിക്ക് സമാന്തര ലംബ തലം ഉണ്ട് അത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യം പോലെയാണ് നമുക്ക് ഒരു കത്തി ഉണ്ട് ഞാൻ ഉപരിതലത്തെ വ്യത്യസ്ത കഷ്ണങ്ങളാക്കി മുറിക്കാൻ പോകുന്നു ആ സ്ലൈസ് ഇന്റർസെക്ഷൻ കർവുകൾ എന്റെ കട്ടർ പാതകളായിരിക്കും അത് നിർമ്മിക്കുന്ന ചിത്രം കാണുക അത് വ്യക്തമാണ് ഐസോ സ്കലോപ്പ് രീതിയിൽ നമ്മൾ കട്ടർ പാത്ത് തിരഞ്ഞെടുക്കുന്നു അതായത് ആ സ്കല്ലോപ്പുകൾ സൃഷ്ടിക്കുന്ന ഉപരിതല റഫ്നെസ്സ് എല്ലായിടത്തും ഹോമോജീനിയസ് ആയിരിക്കും ഇത് നമ്മൾ ഇതിനകം തന്നെ കണ്ടു ഇത് ഐസോപാരാമെട്രിക് കട്ടർ പാതയുടെ ചിത്രീകരണമാണ് ഇത് മെഷീനിംഗ് ദിശയാണെങ്കിൽ കട്ടർ ഈ വഴിക്ക് നീങ്ങുന്നു ഇവിടെ ഒരു സൈഡ്സ്റ്റെപ്പ് എടുക്കുന്നു ഇവിടെ തിരികെ വരുന്നു അത് സിഗ് സാഗ് രീതിയിലൂടെ നീങ്ങുന്നു ആത്യന്തികമായി മെഷീൻ ഉപരിതലം ഇതുപോലെയും ഇതുപോലെയും കാണപ്പെടും കട്ടർ പാതയായിരിക്കും ഉയർത്തിയ ഭാഗങ്ങളിൽ സ്കല്ലോപ്പുകളും ഈ ദിശയിലായിരിക്കും ഇത് ഐസോപ്ലാനർ സമീപനത്തിന്റെ ഒരു ഉദാഹരണമാണ് ഇത് എന്താണ് കാണിക്കുന്നത് ബെസിയർ പ്രതലവുമായി കൂടിച്ചേർന്ന് കട്ടർ പാതകൾ നിർമ്മിക്കുന്ന സമാന്തര ലംബ തലങ്ങളെ ഇത് കാണിക്കുന്നു അല്ലെങ്കിൽ അതിനായി ഏതെങ്കിലും വളഞ്ഞ പ്രതലം ഇതാണ് u ദിശ ക്ഷമിക്കണം w ഇല്ലാതാക്കിയതിൽ ഖേദിക്കുന്നു ഇതാണ് w ദിശ അതായത് 2 പാരാമീറ്റർ ദിശകൾ കാണിക്കുന്നു സമാന്തര ലംബ തലങ്ങൾ കാണിക്കുന്നു ഈ പ്ലെയിനിന്റെയും ഉപരിതലത്തിന്റെയും സർഫസിന്റെയും ഇന്റർസെക്ഷൻ വഴി കട്ടർ പാതകൾ ലഭിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് ഒരു ചോദ്യം ഇപ്പോൾ സ്വയമേവ പ്രത്യക്ഷപ്പെടുന്നു ഐസോപാരാമെട്രിക് രീതിയെക്കാൾ നമുക്ക് പ്രത്യേക നേട്ടം എന്താണ് ഐസോപാരാമെട്രിക് രീതിയിൽ നമ്മൾക്ക് ഒരു പ്രതലമുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അതിന്റെ ഒരു വശത്ത് വളരെ വിശാലമായ അരികുണ്ടായിരുന്നു അത് വളരെ വീതിയുള്ളതും മറുവശത്ത് വളരെ ഇടുങ്ങിയതും ആയതിനാൽ അവിടെ കട്ടർ പാതകൾ ഒരു അറ്റത്ത് വ്യതിചലിക്കുകയും മറ്റേ അറ്റത്ത് കൂട്ടമായി കിടക്കുകയും ചെയ്തു എന്നാൽ ഈ സാഹചര്യത്തിൽ ഈ കട്ടർ പാതകൾ പരസ്പരം സമാന്തരമായതിനാൽ ഞാൻ അർത്ഥമാക്കുന്നത് ഈ പ്ലെയിനുകൾ പരസ്പരം സമാന്തരമായതിനാൽ അവയുടെ ഉപരിതലവുമായുള്ള ഇന്റർസെക്ഷൻ ലൈനുകൾക്ക് മറ്റു രീതിയിൽ വ്യതിചലനം ഉണ്ടാകാൻ പോകുന്നില്ല അതിനർത്ഥം X Y പ്ലെയിനിലെ അവയുടെ ദൂരം കട്ടർ പാത്ത് പരിധിയിലുടനീളം സ്ഥിരമായി തുടരും എന്നാൽ 2 കട്ടർ പാതകൾ തമ്മിലുള്ള ദൂരം മറ്റ് 2 കട്ടർ പാതകൾ തമ്മിലുള്ള ദൂരത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്നാൽ 2 തുടർച്ചയായ കട്ടർ പാതകൾക്കിടയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കട്ടർ പാതകൾക്കിടയിലോ നമുക്ക് എല്ലായ്പ്പോഴും ഒരേ ദൂരം ഉണ്ടായിരിക്കും അതിനാൽ ഐസോപാരാമെട്രിക് രീതിയിൽ സംഭവിക്കുന്ന വ്യതിചലനം ഒഴിവാക്കപ്പെടും എന്നാൽ ഇവിടെ സ്ഥിരമായി നിലനിൽക്കുന്ന സൈഡ് സ്റ്റെപ്പിന്റെ പ്രവർത്തനമാണ് റഫ്നെസ്സ് എന്നതിനാൽ റഫ്നെസ്സ് ഇപ്പോഴും അതേപടി നിലനിൽക്കാൻ പോകുന്നില്ലെന്ന് ഓർക്കുക കട്ടറിന്റെ വക്രതയുടെ ആരവും കട്ട് ദിശയ്ക്ക് ലംബമായി ഉപരിതലത്തിന്റെ വക്രതയുടെ ആരവും ഈ ഐസോപ്ലാനർ സമീപനത്തിന് പോലും സ്ഥിരമായിരിക്കില്ല കാരണം അത് ഉപരിതലത്തിന് സവിശേഷമാണ് അത് നമ്മൾ പ്രയോഗിക്കുന്ന മറ്റേതെങ്കിലും വശത്തെയല്ല ഉപരിതലത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഐസോപ്ലാനർ രീതി കൂടുതൽ വിശദമായി ഇത് ഇതുപോലെ കാണപ്പെടുന്നു നമ്മൾ ഇപ്പോൾ നടത്തിയ നിരീക്ഷണങ്ങൾ കട്ടർ പാതകൾ ഇന്റർസെക്ഷൻ ലൈനുകൾ വഴിയാണ് ലഭിക്കുന്നത് ഉപരിതല റഫ്നെസ്സ് ഇപ്പോഴും യൂണിഫോം അല്ല പക്ഷേ തീർച്ചയായും കട്ടർ പാതകൾ ഇവിടെ വ്യതിചലിക്കുന്നില്ല ഒരു ഐസോപ്ലാനറിലെ ഈ പ്രത്യേക കട്ടർ പാതയിലൂടെ സ്വീകരിക്കേണ്ട ഫോർവേഡ് ഘട്ടങ്ങൾ ഉൾപ്പെടുന്ന ചില ദ്രുത കണക്കുകൂട്ടലുകൾ കട്ടർ പാതയുടെ ഐസോപ്ലാനർ ഫോർവേഡ് സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ കണക്കാക്കും ഒന്നാമതായി ഈ പ്രത്യേക പോയിന്റ്ലെ നോർമൽ നമ്മൾ നിരീക്ഷിക്കുന്നു ഇതൊരു ആരംഭ പോയിന്റായി നമ്മൾ ഈ പ്രത്യേക പോയിന്റ് ലക്ഷ്യമിടുന്നു ഞാൻ ഇവിടെയുണ്ട് ഈ പ്രത്യേക പോയിന്റിൽ എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ പോയിന്റിൽ ഇത് നോർമൽ ആണെന്നും u ദിശ ടാൻജെന്റും w ദിശ ടാൻജെന്റും ആയ 2 ടാൻജെന്റുകളൂടെ ക്രോസ് പ്രോഡക്റ്റ് വഴിയാണ് ഇത് ലഭിക്കുന്നതെന്നും നമ്മൾ പറയുന്നു അവ എങ്ങനെ കണക്കാക്കാമെന്ന് നമ്മൾ ഇതിനകം മനസ്സിലാക്കി ഞാൻ ഭയപ്പെടുന്നു ഇവിടെ നമ്മൾ ടാൻജെന്റ് ചിത്രീകരണത്തിനായി സബ്സ്ക്രിപ്റ്റുകൾ ഉപയോഗിച്ചു സൂപ്പർസ്ക്രിപ്റ്റുകൾ ഉള്ള ടാൻജെന്റിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ട് അവ ഒന്നുതന്നെയാണ് പക്ഷേ വ്യതിയാനത്തിന് ഞാൻ ഖേദിക്കുന്നു അതിനാൽ അതിനെ ഒരു യൂണിറ്റ് വെക്ടർ ആക്കുന്നതിനായി അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഹരിച്ചിരിക്കുന്നു അതിനാൽ ഈ പ്രത്യേക ബിന്ദുവിൽ നമുക്ക് യൂണിറ്റ് നോർമൽ വെക്ടറായി n ഉണ്ട് ഈ ഉപകരണം തുടക്കത്തിൽ ഉപരിതലത്തിൽ സ്പർശിക്കുന്നു c എന്നത് ഈ കട്ടർ പാതയിലേക്ക് സ്പർശിക്കുന്ന വെക്ടറാണ് ഇത് പ്ലെയിനിന്റെയും സർഫേസിന്റെയും ഇന്റർസെക്ഷൻ വഴി ലഭിക്കുന്ന കർവാണ് കൂടാതെ c ഈ ഇന്റർസെക്ഷൻ കർവ് ആരംഭ പോയിന്റ് എന്നിവയിലേക്കുള്ള ടാൻജെന്റ് ആണ് ഇപ്പോൾ c എങ്ങനെ കണ്ടെത്താം c ഈ കർവിന് ടാൻജെന്റ് ആണെങ്കിൽ അത് അടിസ്ഥാനപരമായി ആ MCQ ൽ പഠിച്ച ഉപരിതലത്തിലേക്കുള്ള ഒരു ടാൻജെന്റ് ആണെന്ന് നമുക്ക് വാദിക്കാം അതിനാൽ ഇത് നോർമലിലേക്ക് ലംബമാണ് കാരണം ഒരു പ്രതലത്തിലെ ഒരു പ്രത്യേക ബിന്ദുവിലുള്ള എല്ലാ ടാൻജെന്റ്കളും നോർമലിന് ലംബമായിരിക്കും ആ ഘട്ടത്തിൽ ഉപരിതലത്തിലേക്ക് അതിനാൽ c നോർമൽ n ന് ലംബമാണ് കൂടാതെ c പ്ലെയിനിൽ കിടക്കുന്നതിനാൽ അടിസ്ഥാനപരമായി കർവ് പ്ലെയിനിന്റെ ഭാഗമാണെങ്കിൽ c കർവുമായി സ്പർശിക്കുന്നതിനാൽ c പ്ലെയിനിന്റെ ഭാഗവും ആയിരിക്കണം അതിനാൽ c പ്ലെയിനിൽപെട്ടതാണെങ്കിൽ പ്ലെയിനിൽ കിടക്കുന്നതിനാൽ അത് സാധാരണ പ്ലെയിനിന് ലംബമായിരിക്കണം നമ്മൾ ചെറിയ p എന്നത് പ്ലെയിനിന് ഒരു നോർമൽ ആയി നൽകിയിരിക്കുന്നു അതിനാൽ c എന്നത് n നും p ക്കും ലംബമാണ് അതായത് n p എന്നിവയുടെ ക്രോസ് പ്രോഡക്റ്റ് ഉപയോഗിച്ച് c ലഭിക്കും അതാണ് നമ്മൾ ഇവിടെ എഴുതിയത് യൂണിറ്റ് c വെക്റ്റർ കട്ടർ പാതയിലേക്കുള്ള ടാൻജെന്റ് വെക്റ്ററിന്ന് ഈ പദപ്രയോഗം ഉണ്ടായിരിക്കണം അതായത് നമുക്ക് p അറിയാമെങ്കിൽ n അറിയാമെങ്കിൽ ഇത് ഈ രീതിയിൽ പരിഹരിക്കാം ഇപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചെയ്തത് കട്ടർ പാതയിലേക്കുള്ള ഏതൊരു ടാൻജെന്റിനും അടിസ്ഥാനപരമായി എക്സ്പ്രഷൻ ഉണ്ട് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ dR ഈ രീതിയിൽ നോക്കാം നമ്മൾ ഒരു ചെറിയ വർദ്ധനവ് ദൂരം എടുക്കുന്നു ഉപരിതലത്തിലെ ചെറിയ ഇൻക്രിമെന്റൽ ദൂരം നമുക്ക് ഇത് എങ്ങനെ പ്രകടിപ്പിക്കാനാകും നമ്മൾ പറഞ്ഞത് ഉപരിതലത്തിൽ ഒരു ചെറിയ ഇൻക്രിമെന്റൽ ദൂരം പ്രകടിപ്പിക്കാൻ കഴിയും കാരണം അത് u w എന്നീ 2 പാരാമീറ്ററുകളുടെ ഫംഗ്ഷൻ ആണ് ഇത് u ദിശയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഗുണിക്കണം du w ദിശയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഗുണിക്കണം dw എന്നെഴുതാം കംപ്ലീറ്റ് ഡിഫറൻഷ്യലിന്റെ എക്സ്പ്രെഷൻ ആണിത് ഇത് പരിഗണിക്കപ്പെടുന്ന പോയിന്റിൽ നിന്ന് മറ്റൊരു പ്രത്യേക പോയിന്റിലേക്ക് ഉപരിതലത്തിൽ ഒരു ചെറിയ ഇൻക്രിമെന്റൽ ചലനത്തെ പ്രതിനിധീകരിക്കുന്നു അതിന്റെ മൂല്യം ഈ 2 പരിമിത വ്യത്യാസങ്ങളായ ഡെൽറ്റ u ഡെൽറ്റ w എന്നിവയാൽ നിർവചിക്കപ്പെടും അതിനാൽ ഞാൻ പ്രധാനമായും ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നു ഞാൻ പറയുന്ന ഈ പ്രത്യേക ദൂരം ഈ രീതിയിൽ ഭാഗികമായും പരിമിതമായ വ്യത്യാസങ്ങളിലും എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയും അത് വളരെ നല്ലതും സ്വീകാര്യവുമാണ് എന്നാൽ അത് എവിടേക്കാണ് നയിക്കുന്നത് ഇതിലേക്ക് നയിക്കുന്നു നമ്മൾ സംസാരിച്ച ഈ പ്രത്യേക ചലനത്തെ 2 നിബന്ധനകളാൽ പ്രവർത്തിപ്പിക്കാൻ പോകുന്നു അതിൽ നമ്മൾ പ്രയോഗിക്കാൻ പോകുന്നു എന്താണ് ആ വ്യവസ്ഥകൾ കട്ടർ പാതയിലെ ഒരു ചലനത്തെ പ്രതിനിധീകരിക്കാൻ ഇത് സംഭവിക്കുകയാണെങ്കിൽ അത് ആദ്യം പ്ലെയിനിൽ ആയിരിക്കണം അതെ കട്ടർ പാതയിലെ ചലനത്തെ പ്രതിനിധീകരിക്കുന്നതിനാണ് ഇത് നിർമ്മിച്ചതെങ്കിൽ അത് ഈ പ്ലെയിനിൽ കിടക്കണം നമുക്ക് ആ അവസ്ഥ സാധ്യമാകണമെങ്കിൽ dR p 0 ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രയോഗിക്കാം കാരണം അത് പ്ലെയിനിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് p ന് ലംബമായിരിക്കണം അതിനാൽ dR p എന്നത് 0 ആണ് അതാണ് നമ്മൾ ഇവിടെ എഴുതിയത് രണ്ടാമതായി നമ്മൾ പറയുന്നത് ഉപരിതലത്തിലെ വളരെ ചെറിയ ചലനങ്ങളെക്കുറിച്ചാണ് അതിനാൽ ഇത് ആരംഭ പോയിന്റിലെ ടാൻജെന്റിന്റെ ദിശയിലേക്ക് ഏകദേശം കണക്കാക്കാം ഈ പോയിന്റിൽ dR ഉപയോഗിച്ച് കട്ടർ പാതയിലേക്ക് ടാൻജെന്റുമായുള്ള ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി അത് എനിക്ക് dR ന്റെ മാഗ്നിറ്റ്യൂഡ് തരാൻ പോകുന്നില്ല കാരണം c വെക്ടറും dR വെക്ടറും ഒരേ ദിശയിലാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു മാനസികമായി അത് അംഗീകരിച്ചുവെന്ന് നിങ്ങൾക്കറിയാം നമ്മൾ dR ഡോട്ട് c ഡെൽറ്റ dR c δ എന്ന് എഴുതുകയാണ് ഇപ്പോൾ എന്താണ് δ δ എന്നത് ഈ സെഗ്മെന്റൽ ദൂരത്തിന്റെ ദൈർഘ്യമാണ് അത് കട്ടർ 1 ആം പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് കവർ ചെയ്യണം എന്നാൽ ദൈർഘ്യം എന്തായിരിക്കുമെന്ന് നമ്മൾക്കറിയില്ല അതിനാൽ നമ്മൾ ഇപ്പോൾ ചില ഊഹങ്ങൾ അനുമാനിക്കുന്നു ഇപ്പോൾ ഈ ഊഹ മൂല്യം എന്തായിരിക്കും തൽക്കാലം നമ്മൾ ഈ കേസും അവസാനത്തെ δ പ്രയോഗിച്ചതും നമ്മൾ ഇവിടെ പ്രയോഗിക്കുന്നു എന്നത് ശരിയാണ് അതിനാൽ നമ്മൾ ഈ പദപ്രയോഗങ്ങൾ ഇവിടെ dR p 0 എന്ന് എഴുതുന്നു dR ന്റെ പദപ്രയോഗം പാർഷ്യലിൽ നിന്നും ഫൈനൈറ്റ് ഡിഫറെൻസിൽ നിന്നും നിങ്ങൾക്കറിയാം നമ്മൾ ഈ dR p δ ഇവിടെ എഴുതുന്നു എനിക്ക് δ അറിയില്ല ഞാൻ മൂല്യം ഊഹിച്ചു അപ്പോൾ നമുക്ക് ഇത് എത്രത്തോളം അറിയാം നമ്മൾക്ക് Ru അറിയാം നമ്മൾക്ക് Rw അറിയാം അതായത് പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ∂R⁄∂u and ∂R⁄∂w പ്ലെയിൻ വ്യക്തമാക്കിയാൽ p നമുക്ക് അറിയാം c അറിയാമോ അതെ ഇത് p n എന്നിവയുടെ ക്രോസ് പ്രൊഡക്റ്റാണ് അതിനാൽ Δu Δw എന്നിവ ഒഴികെ പ്രായോഗികമായി എല്ലാം അറിയപ്പെടുന്നു ഇത് അവയെ ഒരേസമയം രേഖീയമാക്കുന്നു അതായത് ലളിതമായ സൈമൽട്ടെനിയസ് ഇക്വാഷനുകൾ u w എന്നിവ കണ്ടെത്താൻ നമ്മളെ അനുവദിക്കും അതായത് u v എന്ന പോയിന്റിൽ നിന്ന് എനിക്ക് u Δu v Δv എന്ന പോയിന്റ് പരിഹരിക്കാൻ കഴിയും 2 വ്യവസ്ഥകൾ വിജയകരമായി പ്രയോഗിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം എന്താണ് ആ 2 നിബന്ധനകൾ ഈ പ്രത്യേക സെഗ്മെന്റൽ ചലനം കട്ടർ പാതയിലൂടെ പ്ലെയിനിൽ തന്നെ എവിടെയെങ്കിലും അവസാനിക്കുമെന്നും ഈ സെഗ്മെന്റൽ ചലനത്തിനും δ നീളമുണ്ടാകുമെന്നും ഇത് മനസ്സിലാക്കിയ ശേഷം നമുക്ക് അടുത്ത ഡവലപ്മെന്റ് നോക്കാം ഇപ്പോൾ നമ്മൾ നേടിയ ഫലങ്ങൾ ആഗോളതലത്തിൽ പരിശോധിക്കുന്നു ഒന്നാമതായി 2nd പോയിന്റ് ഇതിനകം തന്നെ നമ്മുടെ കൈയ്യിലുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ Δu Δv എന്നിവ കണ്ടെത്തി അതിനാൽ u1 w1 ൽ നിന്ന് u2 w2 ന്റെ സംഖ്യാ മൂല്യമുണ്ട് അതിനാൽ നമ്മൾ u1 w1 ൽ ആയിരുന്നു നമ്മൾ u2 w2 നിങ്ങൾക്ക് ഒരു ഭാഗം പുനഃപരിശോധിക്കാൻ വേണ്ടി മാത്രം കണ്ടെത്തി Δ മൂല്യങ്ങൾ കണ്ടെത്തുന്നതിനാൽ u2 w2 കണ്ടെത്താൻ ഈ 2 പദപ്രയോഗങ്ങൾ നമ്മളെ സഹായിക്കുന്നു നമ്മൾക്ക് ഇത് ലഭിച്ചുകഴിഞ്ഞാൽ ഈ സ്ഥാനങ്ങളിലെ റേഡിയസ് മൂല്യങ്ങൾ കണ്ടെത്തുമെന്ന് നമ്മൾ പറയുന്നു എനിക്ക് എങ്ങനെ റേഡിയസ് മൂല്യങ്ങൾ അറിയാമെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം ദൂരത്തിന്റെ ഒരു പോയിന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്ന ആ ഭയങ്കരമായ പദപ്രയോഗങ്ങൾ ദയവായി ഓർക്കുക നമ്മൾ ഒരിക്കൽ കൂടി അതിലേക്ക് മടങ്ങിവരും നമ്മൾ അടിസ്ഥാനപരമായി ആ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നു ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് അത് മനസിലാക്കാൻ കഴിയില്ല എനിക്ക് അത് ഉപയോഗിക്കാൻ താൽപ്പര്യമില്ല അങ്ങനെയെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് നോർമൽ വരയ്ക്കാം എന്നതാണ് നോർമൽ വളരെ എളുപ്പത്തിൽ കണ്ടെത്തി 2 ഭാഗങ്ങളുടെ ക്രോസ് പ്രോഡക്റ്റ് അതിനാൽ എനിക്ക് നോർമൽ വരയ്ക്കാൻ കഴിയും അതിനാൽ ജ്യാമിതീയമായി എനിക്ക് നോർമലുകൾ വരയ്ക്കാനും അവയെ ഒരു പോയിന്റിൽ കൂടിച്ചേരാൻ അനുവദിക്കാനും കഴിയും ഈ പോയിന്റുകളിൽ R1 R2 എന്നിവയുടെ ഏകദേശ മൂല്യങ്ങൾ ഞാൻ പറയും നിങ്ങൾ മറ്റൊരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചേക്കാം ഈ നോർമലുകൾ ഒരേ തലത്തിൽ കിടക്കുന്നില്ല അവ കോപ്ലാനറല്ല അങ്ങനെയെങ്കിൽ നമ്മൾ മുറിക്കുന്ന പ്ലെയിൻ ആണ് വിഭജിക്കുന്ന ലംബ തലം എന്ന് ഓർക്കുക ആ നോർമലുകൾ ലംബ തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക അവ കോപ്ലാനറാണെന്നും അവയുടെ വിഭജന പോയിന്റ് കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് R1 ഉം R2 ഉം ലഭിക്കും ഇപ്പോൾ ഇവ വ്യത്യസ്തമാകുമോ R1 ഉം R2 ഉം ഈ 2 പോയിന്റുകളിലെ ഉപരിതലത്തിന്റെ വക്രതകളെ പ്രതിനിധീകരിക്കുന്നതിനാൽ അവ വ്യത്യസ്തമായിരിക്കും ഈ 2 പോയിന്റുകളിൽ അവയ്ക്ക് വ്യത്യസ്ത വക്രതയുടെ മൂല്യങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ R1 ഉം R2 ഉം കണ്ടെത്തി നമ്മൾ R1 R2 2 എന്ന ശരാശരി മൂല്യം എടുത്ത് ഒരു കണക്കുകൂട്ടൽ നടത്തുന്നു എന്താണ് ഈ കണക്കുകൂട്ടൽ ഈ കണക്കുകൂട്ടലിൽ നമ്മൾ ടോളറൻസിന്റെ മൂല്യം കണക്കാക്കുന്നു നമ്മൾ ഈ പ്രത്യേക ത്രികോണം എടുക്കുന്നു അത് ഹൈപ്പോടെന്യൂസ് R1 R2 ബൈ 2 ഉള്ള മട്ട കോണാണ് അതായത് R ശരാശരി R ആണ് ഈ ഹൈപ്പോടെനസ് ഈ വശം R e e മൂല്യത്തെ ഡീവിയേഷനുമായി തുല്യമാക്കിയിരിക്കുന്നു അത് ഫോം ടോളറൻസിനു തുല്യമായിരിക്കും അതായത് 50 മൈക്രോൺ അതിനാൽ ഇത് ഒരു സംഖ്യയായി നമുക്ക് ലഭ്യമാകും അതിനാൽ നമുക്ക് ഈ പ്രത്യേക ദൂരത്തിന് തുല്യമായR2 2 ഉണ്ട് ഈ ദൂരം എന്താണ് ഇത് δ ബൈ 2 അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നമുക്ക് എന്താണ് ഉള്ളതെന്ന് അറിയാം ഉദാഹരണത്തിന് ജ്യാമിതീയമായി ചുറ്റും R എന്ന് നമ്മൾ കണ്ടെത്തി ഉദാഹരണത്തിന് e യുടെ മൂല്യം നമ്മൾക്കറിയാം അങ്ങനെ ഈ വലതുഭാഗം പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയും അതിനാൽ R ന്റെ മൂല്യം നൽകി e യുടെ മൂല്യം ഇടുന്നതിലൂടെ നമുക്ക് δ യുടെ മൂല്യം നേടാനാകും പക്ഷേ നമുക്ക് ഇതിനകം തന്നെ അറിയാം δ എന്നാൽ ടോളറൻസ് മൂല്യത്തിന്റെ പ്രയോഗമായ അല്പം വ്യത്യസ്തമായ പരിഗണനയിൽ നിന്നാണ് വരുന്നത് അതിനാൽ ഇത് നല്ലതായിരിക്കാം ഇതുമായി പൊരുത്തപ്പെടുന്നില്ല δ ഉപരിതല പരിഗണനയിൽ നിന്ന് നമ്മൾ പ്രവർത്തിച്ച δ എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ ഈ പുതിയ δ എടുക്കുന്നു എക്സ്പ്രഷനിലേക്ക് തിരികെ പോയി കണക്കുകൂട്ടലുകളിലേക്ക് മടങ്ങുക വീണ്ടും അടുത്ത പോയിന്റ് കണ്ടെത്തുക അതുവഴി R ന്റെ മറ്റൊരു മൂല്യം കണ്ടെത്തി ഈ സൈക്കിളിൽ ഒരു ആവർത്തനമായി ആവർത്തിക്കുക നിരവധി ആവർത്തനങ്ങൾക്ക് ശേഷം നമ്മൾ തുടക്കത്തിൽ δ ഇട്ടത് നിരീക്ഷിച്ചാൽ ഈ കണക്കുകൂട്ടലിൽ നിന്ന് അതേ മൂല്യമായി അത് പുറത്തുവരുന്നു നമ്മൾ ആ പ്രത്യേക δ സ്വീകരിച്ച് അടുത്ത പ്രത്യേക പോയിന്റിലേക്ക് നീങ്ങുന്നു ഈ രീതിയെ മാർച്ചിംഗ് എന്ന് വിളിക്കുന്നു ഈ രീതിയിൽ നമ്മൾ മുന്നോട്ടുള്ള ചുവടുകൾ ഒന്നിനുപുറകെ ഒന്നായി കണ്ടെത്താൻ കഴിയും അതിനാൽ ചുരുക്കത്തിൽ നമ്മൾ നീങ്ങുന്ന വഴിയെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് നോക്കാം ഉപരിതലത്തിന്റെ അരികിൽ ഒരു പോയിന്റ് നേടുക അതിനാൽ നമ്മൾ അരികിൽ നിന്ന് ആരംഭിക്കണം ഇതാണ് കട്ടർ പാതയുടെ ആരംഭ പോയിന്റ് ഇത് ഉപരിതലത്തിന്റെ അരികിന്റെയും നിങ്ങൾ ആരംഭിച്ച ലംബ തലത്തിന്റെയും ഇന്റർസെക്ഷനാണ് ഇത് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത കർവ് പ്ലെയിൻ ഇന്റർസെക്ഷൻ അൽഗോരിതം എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് വഴി കണ്ടെത്തി അതിനുശേഷം ഇന്റർസെക്ഷൻ കർവിലെ അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് δ യുടെ ഊഹ മൂല്യം നമ്മൾ നിർവചിക്കുന്നു സാധാരണയായി ഈ ഊഹം അവസാനത്തെ മുന്നോട്ടുള്ള ഘട്ടത്തിന്റെ അവസാന δ ന് തുല്യമാണ് Δu Δw എന്നിവ ലഭിക്കുന്ന കട്ടർ പാതയിലെ ഉപരിതലത്തിലെ അടുത്ത പോയിന്റിലേക്ക് എത്താൻ സർഫസ് പ്ലെയ്ൻ ഇന്റർസെക്ഷൻ അൽഗോരിതം പ്രയോഗിക്കുക കർവ് പ്ലെയിൻ ഇന്റർനാഷണൽ ഗോൾഫ് ഉപയോഗിച്ച് റിഫൈൻ ചെയ്യുക ഒരിക്കൽ കൂടി ഞാൻ അത് ചർച്ച ചെയ്തിട്ടില്ല നിങ്ങൾക്ക് u1 w1 u2 w2 എന്നിവ ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പോയിന്റുകളിൽ നോർമലുകൾ കണ്ടെത്താനാകും ലംബമായി വിഭജിക്കുന്ന തലത്തിൽ അവയുടെ പ്രൊജക്ഷനുകൾ എടുക്കുക അവയെ പിന്നിലേക്ക് കൊണ്ടുവരിക 2 പോയിന്റുകളിൽ ആരം നേടുക അവയുടെ ശരാശരി R ന് തുല്യമായി നേടുക ഫോം ടോളറൻസിന്റെ മൂല്യം 50 മൈക്രോണും R ആരവും δ യുടെ മൂല്യം കണ്ടെത്തുക δ യുടെ ഊഹ മൂല്യം ഈ മൂല്യവുമായി പൊരുത്തപ്പെടുന്നുവെങ്കിൽ അത് നല്ലതാണ് നമുക്ക് അടുത്ത പോയിന്റ് ആരംഭിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും തിരികെ പോയി കണ്ടെത്തുക δ ന്റെ ഈ പുതിയ മൂല്യം ഉപയോഗിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഒരു ഒത്തുചേരൽ ലഭിക്കുന്നതുവരെ ആവർത്തിക്കുക ഇതുവഴി ഐസോപ്ലാനർ രീതിയുടെ മുന്നോട്ടുള്ള ഘട്ടങ്ങൾ കണ്ടെത്താൻ കഴിയും വളരെ നന്ദി